ദുരിതമോചനത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാം സതീഷ് ടി റൂർക്കി യിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഇന്ന് പുനർനിർമ്മാണത്തെ ഡീസെൻട്രലൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൊളംബിയയിലെ പുനർനിർമ്മാണമായ കൊളംബിയൻ കേസുകളിൽ നിന്ന് നമ്മൾ ഈ ആസ്പെക്റ്റിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു ഇന്ന് ഗോൺസാലോ ലിസാറാൾഡിനെയും അദ്ദേഹത്തിന്റെ എട്ടാം അധ്യായത്തിനെയും കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനെ ഡീസൻട്രലൈസിങ് റീകൺസ്ട്രക്ഷൻ അഗ്രിക്കൾച്ചർ കോപ്പറേറ്റീവ്സ് ആസ് അ വെഹിക്കിൾ ഫോർ റീകൺസ്ട്രക്ക്ഷൻ ഇൻ കൊളംബിയ എന്ന് വിളിക്കുന്നു ഇത് ബിൽഡ് ബാക്ക് ബെറ്റർൽ പബ്ലിഷ് ചെയ്തതാണ്മിഷൽ ലയോൺ തിയോ ഷിൽഡർമാൻ ഒപ്പംകാമിലോ ബോനോ Camilo Boano എന്നിവർ എഡിറ്റ്edit ചെയ്തു പ്രാക്ടിക്കൽ ആക്ഷൻ പബ്ലിഷിംഗ് ഗ്രൂപ്പ്ആണ് ഇത് പബ്ലിഷ് ചെയ്തത് അതിനാൽ അദ്ദേഹത്തിന്റെ വിവരണങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും കിട്ടിയ അറിവുകളും ധാരണകളും ഞാൻ എടുക്കാൻ പോകുന്നു അങ്ങനെ 1999 ലെ ഭൂകമ്പത്തിന് ശേഷം കാപ്പി തൊഴിലാളി സമൂഹം എങ്ങനെയാണ് പുനർനിർമ്മാണം സംഘടിപ്പിച്ചതെന്ന് നമുക്ക് പഠിക്കാം ഡീസെൻട്രലൈസേഷനെകുറിച്ച് സംസാരിക്കുമ്പോൾസെൻട്രലൈസ്ഡ് സമീപനത്തിലും ഡീസെൻട്രലൈസ്ഡ് സമീപനത്തിലും നമുക്ക് ചർച്ച ആരംഭിക്കാം എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഇവിടെ കാണുന്നത് സെൻട്രലൈസ്ഡ് സമീപനമാണ് അവിടെ എല്ലാ തീരുമാനങ്ങളും എല്ലാ ഫിനാൻഷ്യൽ ഫ്ലോസുംഎല്ലാം സെന്ററിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരുതരം ഡിക്റ്റാറ്റോറിയൽ ഓർഡർ പോലെയാണ് കാരണം ഈ പ്രത്യേക സമീപനങ്ങൾ ബിസിനസ്സ് സെക്ടറിലുംരാഷ്ട്രീയത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്ന സെക്ട്ടറിലും വളരെയധികം ഉപയോഗിക്കുന്നു അതിനാൽ എല്ലാം നമ്മൾ ഒറ്റക്ക് ഏറ്റെടുക്കുന്നതിന്റെ ഭാരം എങ്ങനെ കുറക്കാൻ സാധിക്കുംഎങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ ഡീസെൻട്രലൈസ് ചെയ്യാൻ സാധിക്കും അതിനാൽ നമ്മൾ ചെയ്യുന്നത്നേരത്തെഎല്ലാം ഒരാളുടെ തീരുമാനം ആയിരുന്നു അല്ലെങ്കിൽ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ അന്തിമ തീരുമാനം ആയിരുന്നു എല്ലാ ഫ്ലോ നും അതിന്റെ അംഗീകാരം എടുക്കേണ്ടതുണ്ട് അത് അങ്ങനെയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചതിനാൽ ലോഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നിയന്ത്രണങ്ങൾ വർദ്ധിച്ചു അങ്ങനെയാണ് മറ്റ് ബോഡികളിലേക്ക്മറ്റ് സെക്ടറുകളിലേക്ക് ലോഡ് വ്യാപിപ്പിക്കാൻ പല മോഡലുകളും സമീപിച്ചത് ഉദാഹരണത്തിന്നമ്മുടെ ഐഐടി പോലുള്ള ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡയറക്ടറുണ്ട്പിന്നെ നമുക്ക് ഡീൻമാരുണ്ട് അങ്ങനെ പിന്നെ ആരെങ്കിലും ഫാക്കൽറ്റി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുഅക്കാദമിക് വേറെ ചിലർ ശ്രദ്ധിക്കുന്നു വേറെ ചിലർ ഗവേഷണം നടത്തുന്നു മറ്റു ചിലർ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകുന്നു തുടർന്ന് ഓരോന്നും വിവിധ വകുപ്പുകളായി വിഭജിക്കുകയും വ്യത്യസ്ത ഹെഡുകൾ അത് പരിപാലിക്കുകയും ചെയ്യുന്നു അതിനാൽ ഹെഡിന് ഫിനാൻഷ്യൽ പവർ ഉൾപ്പെടെയുള്ള ചില അധികാരങ്ങളുണ്ട് അതുപോലെ തന്നെ ചില തീരുമാനങ്ങളെടുക്കാനുള്ള അധികാരവും ഉണ്ട്ചില അധികാരങ്ങൾ ഈ വ്യത്യസ്ത ഡീൻമാർക്ക് വിഭജിച്ചു കൊടുക്കുന്നു ഡയറക്ടർ ഐഐടിആറിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം ശ്രദ്ധിക്കുന്നു അതുപോലെ അത് ശാഖകളായി വിഭജിക്കപ്പെടുകയും ഉപവിഭാഗങ്ങളായി മാറുകയും ചെയ്യുന്നു അങ്ങനെ ചില അധികാരങ്ങൾ വ്യത്യസ്ത ബോഡികളിൽ നിക്ഷിപ്തമാക്കുകയും ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വഴിതിരിക്കുകയും ചെയ്യുന്നു കൂടാതെ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഭരണം ആണ് ഇങ്ങനെയാണ് ഡീസെൻട്രലൈസേഷന്റെ അടിസ്ഥാനപരമായ വ്യത്യാസം ഭവന നിർമ്മാണ മേഖലയിൽ ഭവന വിതരണത്തിൽഅവിടെ ഒരു പരമ്പരാഗത സമീപനം ഉണ്ടാവും അത് ഒരു കോൺസെൻട്രേറ്റെഡ് സമീപനമാണ് ഈ സമീപനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളും അപകടസാധ്യതകളും എന്തൊക്കെയാണ് ഒന്ന് അത് ഒരു അതോറിറ്റിതന്നെ ധാരാളം വിവരങ്ങൾ കംപൈൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു ചെറിയ ടീമാണ്പലതരം വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അവരാണ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതിനാൽ ഉയർന്ന തലത്തിലുള്ള അനിശ്ചിതത്വത്തിനും അപകടസാധ്യതകൾക്കുംശരിയായ ആശയവിനിമയ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട് അതിനാൽ എങ്ങനെയാണ് ഹയർ ഓർഡർ ലെവലിൽ നിന്ന് ലോവർ ഓർഡർ ലെവലിലേക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ മാക്രോ ലെവലിൽ നിന്ന് ഒരു മൈക്രോ ലെവലിലേക്ക് എങ്ങനെ ആശയവിനിമയം നടത്തും വിശ്വസനീയവും ഉപയോഗപ്രദവുമായ വിവരങ്ങളിലേക്കുള്ള പ്രവേശനത്തിന്റെ അന്തർലീനമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും അതിനാൽ എല്ലായ്പ്പോഴും ഒരു മൈക്രോ ലെവൽ സെഗ്മെന്റിന്റെ പോലും വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള തദ്ദേശീയമായ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവും അത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ബിഹേവിയറൽ ആസ്പെക്ട്നെ കുറിച്ചുള്ള വിവരമായിരിക്കാം അതിനാൽ അത് ബുദ്ധിമുട്ടാണ് അതിനാൽ ഈ പരമ്പരാഗത സമീപനത്തിന്റെ ഭൂരിഭാഗവും അവർ പലപ്പോഴും ഒരു കോൺട്രാക്റ്ററിൽ അവസാനിക്കുന്നു മിക്ക സമയത്തും ഒരു പ്രതിസന്ധിയുടെ കാര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ ഈ കോൺട്രാക്ടറുകൾ റെഡി ആയിരിക്കും അങ്ങനെയാണ് ഈ പരമ്പരാഗത സമീപനങ്ങളിൽ ഭൂരിഭാഗവും കോൺട്രാക്ടർ നയിക്കുന്ന പ്രക്രിയയിൽ ഭവന വിതരണത്തെ പാഴാക്കുന്നു കാരണം അവർ വ്യക്തമായും ലാഭമുണ്ടാക്കുന്ന സ്ഥാപനമാണ് അവർക്ക് ഇത് ഒരു തൊഴിൽ അവസരമാണ് മാത്രമല്ല അവരിലൂടെ ചില ഉപഗ്രൂപ്പുകൾക്കും പ്രയോജനം കിട്ടും പരമ്പരാഗത സമീപനം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് വാസ്തവത്തിൽ ഗോൺസാലോ ലിസാറാൾഡുംകാസിഡി ജോൺസണുംകോളിനും യഥാർത്ഥത്തിൽ ദുരന്തങ്ങൾക്ക് ശേഷം പുനർനിർമ്മിക്കുന്നതിൽ എമർജൻസി തൊട്ട് സസ്റ്റയിനിബിലിറ്റി വരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് ഒരു കോൺസെൻട്രേറ്റഡ് ഡിസിഷൻ മേക്കിങ് പ്രക്രിയയാണ് എന്നതിനെ കുറിച്ചാണ് അവർ അവിടെ പറയുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു പരമ്പരാഗത സമീപനം ശേഖരിക്കേണ്ടതിനാൽ നിങ്ങൾ ഒരു കൂട്ടം വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്അത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് അവർ ഒരു സമാനത ഇല്ലാത്ത ഭവന മാതൃക വികസിപ്പിക്കുന്നതിൽ അവസാനിപ്പിക്കുന്നു കാരണം അവർക്ക് ബജറ്റ് പരിമിതികൾ ഉൾപ്പെടെ ഒരു പാട് വെല്ലുവിളികൾ ഉണ്ട് സമയപരിധിയുണ്ട് കൂടാതെ പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ടാവും അങ്ങനെ അവിടെയാണ് അവസാനം അവർ എല്ലാം അവസാനിപ്പിച്ച് ഒരു പരീക്ഷിച്ച മാതൃകയുമായി വരുന്നത് തുടർന്ന് അവർ സൈറ്റ് സന്ദർഭം പരിഗണിക്കാതെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നു കമ്മ്യൂണിറ്റി സന്ദർഭം പരിഗണിക്കാതെ അവർ ഒരു ഏകീകൃത നിലവാരമില്ലാത്ത വികസന പ്രക്രിയ ആവർത്തിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ വികസിപ്പിക്കണമെങ്കിൽ നിങ്ങൾ വലിയൊരു ഭാഗം ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾക്ക് ഒരു വലിയ ഭവന പദ്ധതി നൽകണമെങ്കിൽ അത്തരം സെഗ്മെന്റ് ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് ധാരാളം ഭൂമി ആവശ്യമാണ് മാത്രമല്ല നിങ്ങൾക്ക് ജോലികളിലേക്കും സേവനങ്ങളിലേക്കും മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചറിലേക്കും ഗതാഗതത്തിലേക്കും പ്രവേശനം ആവശ്യമാണ് നഗരത്തിന് പുറത്ത് നിങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തിയേക്കാം കാരണം അത് വിലകുറഞ്ഞതാണ് മാത്രമല്ല എല്ലാ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും നിങ്ങൾ അവിടെ നടത്തുകയും ചെയ്യാം എന്നാൽ ആളുകളുടെ ജോലി അവർ എങ്ങനെ യാത്ര ചെയ്യുന്നു സേവന മേഖല ഗതാഗത സൌകര്യം ജോലികൾ ഇല്ലെങ്കിൽ അവർ എങ്ങനെ യാത്ര ചെയ്യുന്നുപ്രത്യേകിച്ചും നിങ്ങൾ ഇൻഫോർമൽ സെക്ടർ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ എങ്ങനെ അവ നൽകാൻ പോകുന്നു അതിനാൽ ഇത് ഒരു പ്രധാന വെല്ലുവിളിയായി മാറുന്നു പ്രധാനമായും നമ്മൾ ഒരു ഭൂമി കണ്ടെത്തുന്നതിനെക്കുറിച്ചും ഒരു ഭവന പദ്ധതി വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അവരും അത് സംസാരിക്കേണ്ടതുണ്ട് ഉത്തരവാദിത്തമുള്ള ഒരു ടീം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവശ്യമാണ് വലിയ അളവിലുള്ള ഇൻഫർമേഷൻ വിലയിരുത്തുന്നതിനും സന്തുലിതമാക്കുന്നതിനും അത് ലഭിക്കാനും വ്യാഖ്യാനിക്കാനും ബുദ്ധിമുട്ടുള്ളതാണ് എന്ത് തരത്തിലുള്ള ഇൻഫർമേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സാമ്പത്തിക നിക്ഷേപത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഓപ്ഷനുകൾ ഭൂമി വിലകൾ സങ്കീർണ്ണമായ സാംസ്കാരിക ആഗ്രഹങ്ങൾ അപ്രതീക്ഷിത സാമൂഹിക മനോഭാവങ്ങൾ വിവാദപരമായ പരമ്പരാഗത മൂല്യങ്ങൾ ദൈനംദിന പെരുമാറ്റങ്ങൾ രാഷ്ട്രീയ പരിമിതികൾ ഭരണപരമായ ആവശ്യങ്ങൾ ലോജിസ്റ്റികൽ പരിഗണനകൾ അവ്യക്തമായ നിയമ നടപടിക്രമങ്ങൾ പരസ്പരബന്ധിതമായ അടിസ്ഥാന സൌകര്യ ചെലവുകൾ പുനരുപയോഗ ആവശ്യങ്ങൾ പരിപാലനച്ചെലവ് പാരിസ്ഥിതിക പരിഗണനകൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇത് വൈവിധ്യമാർന്ന ഇൻഫർമേഷനുകൾആണ് ഒരൊറ്റ ടീം പലതരത്തിലുള്ള വിവരങ്ങളിൽ ആശയക്കുഴപ്പത്തിലാകും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നു അതിനാൽ ഈ പ്രക്രിയയിൽ ധാരാളം വിവരങ്ങൾ ഉള്ളതിനാൽ പക്ഷെ പദ്ധതി മുന്നോട്ട് പോകേണ്ടതുണ്ട് അവിടെയാണ് പലപ്പോഴും കോൺട്രാക്ടറുടെ അല്ലെങ്കിൽ ഏകീകൃതവും സ്റ്റാൻഡേർഡൈസ്ഡുമായ മോഡലുകളുമായി അവസാനിക്കുന്നത് ഇവിടെയാണ് നിയന്ത്രിത എണ്ണം ബിൽഡറുകൾ പ്രൊഫഷണലുകൾ ഉപദേശകർ എന്നിവർ നടത്തിയ നിക്ഷേപത്തിൽ നിന്ന് പ്രയോജനം നേടുന്നത് അത് ഒരുതരം കരാർ പ്രക്രിയയാണെങ്കിലുംഫോർമൽ ബിൽഡറും ഇൻഫോർമൽ സെക്ടറും ഇൻഫോർമൽ കമ്മ്യൂണിറ്റികളും തമ്മിലുള്ള പ്രശ്നം ഇതാണ് ഇൻഫോർമൽ കമ്മ്യൂണിറ്റികൾ അവർക്ക് വളരെ വൈവിധ്യമാർന്ന ഉപജീവനമാർഗങ്ങളുണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ ഖനി ഗുഹകളുള്ള ചിലരുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ വീട്ടുജോലിക്കാരായി ജോലി ചെയ്യുന്നവരുണ്ട് ചെറുകിട കർഷകരായി ജോലി ചെയ്യുന്നവരുണ്ട് മാലിന്യം ശേഖരിക്കുന്നവരായി ജോലി ചെയ്യുന്നവരുണ്ട് അതിനാൽഇൻഫോർമൽ മേഖലകളിൽ വൈവിധ്യമുണ്ട് ഇത് വളരെ സങ്കീർണ്ണമായ ഒരു പ്രതിഭാസമാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ സ്ഥാപനങ്ങൾ അധികം അംഗീകരിക്കപ്പെടാത്തതാവം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഇൻഫോർമൽ കമ്പനികളെ പ്രൊഫഷണൽ അസോസിയേഷനുകൾ നിയമപരമായി അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം ഈ ഇൻഫോർമൽ മേഖലകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർ അടിസ്ഥാനപരമായ പങ്ക് വഹിക്കുന്നു 1999 ൽ കൊളംബിയയിൽ 6 2 റിക്ടർ സ്കെയിലിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അർമേനിയയിലെ നാശമാണ് ഇത് നഗര സജ്ജീകരണങ്ങളെയും ഗ്രാമീണ സജ്ജീകരണങ്ങളെയും ബാധിച്ചു ഇന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ഗ്രാമീണ സജ്ജീകരണങ്ങൾ പ്രത്യേകിച്ച് കാപ്പി കർഷകരുടെ കാർഷിക സഹകരണ സംഘങ്ങളുടെ ഒരു പ്രത്യേക കോപെറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് ഇപ്പോൾ കൊളംബിയ കാപ്പി കൃഷിക്ക് പേരുകേട്ടതാണ് അതൊരു കാപ്പി സംസ്കാരമാണ് അവിടെയാണ് സമ്പന്നമായ കാപ്പി ഉൽപന്നങ്ങൾക്ക് പേരുകേട്ട കൊളംബിയയിലെ പൈസ പ്രദേശം കാപ്പി കൃഷി സംസ്കാരത്തിന് പേരുകേട്ട ഈ പ്രത്യേക മേഖലയിൽ 4 ഓളം വകുപ്പുകളുണ്ട് ഇവിടുത്തെ ഗ്രാമീണ സമൂഹങ്ങളെയും ഭൂകമ്പം ബാധിച്ചിട്ടുണ്ട് ഏകദേശം 800 മരണങ്ങൾ ഉണ്ടായി ഏകദേശം 1856 ഗ്രാമീണ വീടുകളും നിരവധി നഗര യൂണിറ്റുകളും നശിപ്പിച്ചു ഇത് കൊളംബിയയിലെ പ്രമുഖ വ്യവസായങ്ങളിലൊന്നായതിനാൽ പ്രാദേശിക ജിഡിപിയുടെ 4 2 ഉൽപ്പാദന മേഖലയും ഇതിന് നഷ്ടമായികൂടാതെ കാപ്പിയോട് അനുബന്ധിച്ച മൈക്രോ ഇൻഡസ്ട്രികളുടെ 1000 ബിൽഡിങ്ങുകളും അതായത് ഇത് ഫിൽട്ടർ ചെയ്യുന്നതോ വ്യാവസായിക ഇൻപുട്ടുകളോ മറ്റേതെങ്കിലും വെയർഹൌസുകളോ സ്റ്റോറേജുകളോ ആവാംഇവയെല്ലാം നശിപ്പിക്കപ്പെട്ടു ഒന്നുകിൽ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഭാഗികമായി നശിപ്പിക്കപ്പെട്ടു പക്ഷേ ഒരാൾക്ക് കൊളംബിയയെ മനസ്സിലാക്കണമെങ്കിൽ തിയറീസ് ഓഫ് വൾനെറബിലിറ്റി യിൽ നാം ചർച്ച ചെയ്തതുപോലെ പ്രത്യേകിച്ച് ഗ്രാമീണ സമൂഹങ്ങളിൽ സമ്പത്തിന്റെയും ഭൂമിയുടെയും അസമത്വ വിതരണമാണെന്ന് വിപുലമായ സാഹിത്യത്തിൽ നിന്ന് വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട് ഗ്രാമീണ ദാരിദ്ര്യത്തിനൊപ്പം നഗര സങ്കലനവുമുണ്ട് അവിടെ ചേരികളും ഉണ്ട്നഗര സജ്ജീകരണങ്ങളിൽ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ അധിനിവേശം നടത്തിയ ഇൻഫോർമൽ സെറ്റിൽമെന്റുകൾ ഗ്രാമീണ ദാരിദ്ര്യത്തോടും ഭവനരഹിതരോടുമുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ ഉദാസീനത ഗ്രാമീണ നിവാസികൾക്ക് ബാങ്കിംഗ് സേവനങ്ങളും ആരോഗ്യ പരിരക്ഷയും പോലും ലഭിക്കുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ബാങ്കിംഗ് സേവനങ്ങളിലേക്ക് പ്രവേശനം ഇല്ലെങ്കിൽ ദാരിദ്ര്യ സൂചനയുടെ നിലവാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിനാൽ ആരോഗ്യ സംരക്ഷണം അടിസ്ഥാനപരമായ ഒരു ആസ്പെക്ട് ആണ് അതിനാൽ ഈ ഗ്രാമീണ സജ്ജീകരണങ്ങളിൽ പലതും അവർക്ക് പലപ്പോഴും ആരോഗ്യ പരിരക്ഷയിലേക്കും അതുപോലെ തന്നെ ബാങ്കിംഗ് സാമ്പത്തിക ഉപകരണങ്ങളിലേക്കും പ്രവേശനം നേടുന്നില്ല ഭൂകമ്പത്തിൽ നിലവിലുള്ള സാമൂഹിക ഘടകങ്ങൾ ഈ ഫിസിക്കൽ വൾനെറബിലിറ്റിയുടെ കൂടെ ലയിച്ചു വീടുകളുടെ ശരിയായ അറ്റകുറ്റപ്പണികളുടെ അഭാവം കുത്തനെയുള്ള കുന്നുകളിലും അസ്ഥിരമായ ഭൂമിയിലും അനിയന്ത്രിതമായ ഇൻഫോർമൽ നിർമ്മാണം മേൽക്കൂരകളുടെ അറ്റകുറ്റപ്പണികളുടെ അഭാവം എന്നിവ പ്രാദേശിക ഭവനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കളിമൺ ടൈലുകൾ പോലുള്ള ഭാരമേറിയ വസ്തുക്കളുടെ തകർച്ചയ്ക്ക് കാരണമായി കാര്യമായി ബാധിച്ച സ്ട്രക്ച്ചറുകളിൽ കൂടുതലും 1984 ൽ ഉണ്ടാക്കിയതാണ്ബിൽഡിംഗ് കോഡുകൾ സമഗ്രമായ ഭൂകമ്പ പ്രതിരോധ മാനദണ്ഡങ്ങൾ അവതരിപ്പിച്ചപ്പോൾ മൊത്തം 48 ഗ്രാമീണ സ്കൂളുകൾ തകരുകയും 86 വിദ്യാഭ്യാസ സൌകര്യങ്ങളെ മോശമായി ബാധിക്കുകയും ചെയ്തു കാപ്പി കർഷകരുടെ ഒരു വലിയ സൊസൈറ്റി ഇപ്പോൾ കാപ്പി കർഷക സംഘടനകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാപ്പി കർഷക ഫെഡറേഷനാണ് അതിനാൽ അവർ ചെയ്തത്അവിടെയുള്ള ഒരു ഫണ്ടാണ് FOREC സർക്കാരിന്റെ പിന്തുണയോടെയാണ് അത് രൂപീകരിച്ചത്അത് ഏകദേശം 720 ദശലക്ഷം സംഭാവന നൽകി കൂടാതെ ഈ FOREC കൌൺസിലിന്റെ പ്രസിഡന്റ് അദ്ദേഹം ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റൂഷണൽ മോഡൽ സ്വീകരിച്ചു അതിന് ഒരു ലക്ഷ്യമുണ്ട് ഒന്ന് ഇന്റർമീഡിയറ്റ് ഓഫീസർമാരെ ഉന്മൂലനം ചെയ്യുക കാരണം അഴിമതി ഒരു പ്രധാന മുൻഗണനയാണ് അതിനാൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഓഫീസുകൾ ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾ മുഴുവൻ നടപടിക്രമങ്ങളുമാണ് ഇല്ലാതാക്കുന്നത് തീരുമാനങ്ങളുടെ സുതാര്യത ഉറപ്പുനൽകുക ജനാധിപത്യ സംവിധാനങ്ങളെയും സാമൂഹിക സംഘടനകളെയും ശക്തിപ്പെടുത്തുക ഒരു ജനാധിപത്യ സമീപനത്തിൽ സോഷ്യൽ സെറ്റപ്പ് എങ്ങനെ നിർമ്മിക്കാം മെച്ചപ്പെടുത്തൽ തടയുകയും സമാധാനപരമായ സാമൂഹിക പങ്കാളിത്തത്തിനുള്ള അവസരങ്ങൾ ഏകീകരിക്കുക അവസരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവർ ചെയ്തത് ഇത്തരത്തിലുള്ള പ്രക്രിയയെ നേരിടാൻ അവർ ഓരോ മുനിസിപ്പാലിറ്റിക്കും ഒരു ഡീസെൻട്രലൈസ്ഡ് സമീപനം സ്വീകരിച്ചു അതിനാൽ നിരവധി എൻജിഒകൾ ഈ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ മുന്നോട്ട് വന്നു തുടർന്ന് അവർ ചെയ്തത് കുറഞ്ഞത് ഓരോ എൻജിഒയ്ക്കും പ്രത്യേക ചുമതല നൽകി തുടർന്ന് ഓരോ എൻജിഒയ്ക്കും മുനിസിപ്പാലിറ്റിയുടെ ചുമതല നൽകി ഉദാഹരണത്തിന് കാലാർക്ക കമാറ ജൂനിയർ എന്നീ മുൻസിപ്പാലിറ്റികൾക്ക് നിയോഗിക്കപ്പെട്ട ഒരു എൻജിഒ ആണ് 'ഫെനാവിപ്' ഫിൻലാൻഡിയ ആന്റിയോക്വിയ പ്രെസെന്റേ എന്നീ മുൻസിപ്പാലിറ്റികളുംലാ ടെബൈഡയുടെമുനിസിപ്പാലിറ്റിയുംമറ്റും അതേസമയം പെരേര അർമേനിയ തുടങ്ങിയ വലിയ നഗരങ്ങളിൽ ഓരോ എൻജിഒയും ഒരു നിർദ്ദിഷ്ട പ്രദേശത്തിന് ഉത്തരവാദി ആയിരുന്നു അതിന്റെ സൈസ് കാരണം അത് ഒരു ബറോയ്ക്കോ വലിയ അയൽപ്രദേശത്തിനോ ഏതാണ്ട് തുല്യമാണ് ഏറ്റവും വലിയ ആശങ്കയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളും പൊതു ഇടങ്ങളും അനധികൃതമായി കൈവശം വയ്ക്കുന്നത് ഇത് പരിഗണനയിൽ വരാത്തതിനാൽ ഇത് ഫോറെക്കിന്റെ ഗുരുതരമായ ആശങ്കയായി മാറി FOREC ഉത്തരവാദിത്തങ്ങൾക്ക് കീഴിൽ താത്കാലിക ഷെൽട്ടറുകൾ പ്രാരംഭ പ്രക്രിയയിൽ ഒരു ഭാഗമല്ലായിരുന്നു എന്നാൽ ആളുകൾ അവരുടെ കൈവശമുള്ള റിസോർസസ് എന്തായാലും താൽക്കാലിക യൂണിറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി ഇവിടെയാണ് താൽക്കാലിക ഷെൽട്ടറുകളും പുതിയ താൽക്കാലിക യൂണിറ്റുകളും തുടങ്ങിയത് ലാൻഡ് ഏതായാലും 6000 ലധികം താൽക്കാലിക യൂണിറ്റുകളുടെ മാനേജ്മെന്റ്പൊതു ഉടമസ്ഥതയിലുള്ള നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ബോഗോട്ട യെ ഏൽപ്പിച്ചു അതിനാൽ ഇവിടെയാണ് കാപ്പി കർഷക സംഘടനകൾ കാര്യക്ഷമതയും അന്തർദേശീയ മത്സരശേഷിയും മെച്ചപ്പെടുത്തുന്നതിലൂടെയും അതേ സമയം കാപ്പി കർഷകന്റെ അവന്റെ അവളുടെ കുടുംബത്തിന്റെയും സ്ഥലത്തിന്റെയും സമഗ്രമായ വികസനം സംഭരിച്ചുകൊണ്ട് പ്രാദേശിക കാപ്പി വ്യവസായത്തിന്റെ വികസനത്തിന് അനുകൂലമായി ലക്ഷ്യമിടുന്നത് അതിനാൽ കാപ്പി കർഷകരുടെ കൂട്ടായ്മയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതിനാൽ അവരുടെ ഉപജീവനമാർഗങ്ങൾ മുഴുവൻ പിന്തുണാ സംവിധാനങ്ങൾ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിലാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു സഹകരണ സംഘമെന്ന നിലയിലുള്ള അവരുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കി കർഷക സമൂഹങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ സിജിഒകൾക്ക് കഴിഞ്ഞു ഒന്ന് സമൂഹത്തെ പിന്തുണയ്ക്കുകയും വിശ്വാസ്യത നേടുകയും ചെയ്യുക ഗ്രാമീണ മേഖലകളിലുടനീളം വ്യാപിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ സംഘടനാ അടിസ്ഥാന സൌകര്യങ്ങളോടൊപ്പം ഭരണപരവും സാമ്പത്തികവുമായ ശേഷി പ്രാദേശിക അറിവ് സ്വന്തം വിഭവങ്ങളുടെ ലഭ്യത സ്വതന്ത്രമായ തീരുമാനമെടുക്കൽ ശേഷിയെക്കുറിച്ചാണ് ഇവ പറയുന്നത് ദേശീയവും അന്തർദേശീയവുമായ വാണിജ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഗ്രാമീണ സജ്ജീകരണത്തെ ദേശീയവും അന്തർദേശീയവുമായ കൂടുതൽ സെറ്റപ്പുകളുമായിഎങ്ങനെ ലിങ്ക് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാപ്പി കർഷകർക്ക് ഫാമിലി ബിസിനസുകളുടെ ഘടകങ്ങളുള്ളതും അതായത് ചെറിയ ഫാമിലി ബിസിനസുകൾകാപ്പി കർഷകർ ലോക്കൽ കമ്മ്യൂണിറ്റികളുമായി വീണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നതുമായ മുഴുവൻ ഘടനയും ഇവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നു അതിനാൽ കുടുംബ ബിസിനസുകളുടെ ഓരോ ഗ്രൂപ്പും ഒരു പ്രത്യേക ലോക്കൽ കമ്മ്യൂണിറ്റികൾരൂപീകരിക്കുന്നു തുടർന്ന് അവർ വീണ്ടും റീജിയണൽ കമ്മ്യൂണിറ്റികളെകോൺട്രിബിയൂട്ട് ചെയ്യുന്നു ഇവിടെയാണ് കോഫി കർഷകരുടെ ഫെഡറേഷൻ ഉണ്ടാവുന്നത് ഇന്ത്യയിൽ പോലും സൌത്ത് ഇന്ത്യൻ ഫിഷർമെൻ ഫെഡറേഷൻ കേരളത്തിലുണ്ട് അങ്ങനെ നമ്മൾ പറയുന്നത്ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ സെറ്റപ്പ് ഉണ്ട്ഈ ചെറിയ സെറ്റപ്പ് ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയെ സംഭാവന ചെയ്യുന്നു ലോക്കൽ കമ്മ്യൂണിറ്റിഒരു റീജിയണൽ കമ്മിറ്റിയെ സംഭാവന ചെയ്യുന്നു തുടർന്ന് ഫെഡറേഷനുമായി ചേർക്കുന്നു അവിടെയാണ് മൊത്തത്തിൽ എല്ലാ പ്രക്രിയകളും ശ്രദ്ധിക്കുന്ന കാപ്പി കർഷക ഫെഡറേഷൻ CEO ഉള്ളത് കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കർഷകർ ദേശീയതല കമ്മിറ്റി ദേശീയ കാപ്പി കർഷക കോൺഗ്രസ് എന്നിവയും സമ്മിറ്റിൽ ഉണ്ട് അതിനാൽഒരു ഡീസെൻട്രലൈസ്ഡ് സെറ്റപ്പ് ലേക്ക് നോക്കാൻ ഈ ഘടനയ്ക്ക് കഴിയാത്തത് ഇത്കൊണ്ടാണ് അവിടെ 2 ഘട്ടങ്ങൾ ഉണ്ട് അടിയന്തര ഘട്ടംസ്ഥിരമായ ഘട്ടം ഇവിടെ അടിയന്തര ഘട്ടത്തിൽ ഈ CGO കളുടെ പങ്ക് എന്താണെന്നതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു അവർ യഥാർത്ഥത്തിൽ ഒരുതരം ഫണ്ട് മാനേജർമാരായി പ്രവർത്തിച്ചു ബാഹ്യ സഹായം എങ്ങനെ വിതരണം ചെയ്യാം വ്യവസായം വീണ്ടും സജീവമാക്കുകയും സീസണൽ വിളവെടുപ്പ് ശേഖരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു കൂടാതെ പ്രധാന നഗരപ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം തടയുന്നു അവർ ടെന്റുകളും കുറച്ച് ഭക്ഷണവും റേഷനും ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് സ്ഥിരമായ പുനർനിർമ്മാണത്തിൽ കഠിനവും ലളിതവും ആയ ആവശ്യങ്ങളും ഉണ്ട് കഠിനമായ ആവശ്യങ്ങൾ ഫണ്ടിങ് ഭവന പുനർനിർമ്മാണംകാപ്പി വ്യവസായം പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ കമ്മ്യൂണിറ്റി സേവനങ്ങൾ വിദ്യാഭ്യാസ സാങ്കേതികത എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പുനർനിർമ്മാണം എന്നിവയാണ് അതേസമയം ലളിതമായ ആവശ്യങ്ങൾ എന്നാൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെക്കുറിച്ച് ഇത് എങ്ങനെ നിർമ്മിക്കാമെന്നും പങ്കാളിത്തം വിദ്യാഭ്യാസംഡിസിഷൻ മേക്കിങ് കപ്പാസിറ്റി ഇൻഫർമേഷൻ ചാനലിംഗ് തൊഴിലവസരങ്ങൾ സാമ്പത്തിക പ്രതികരണം ഉണ്ടാക്കുക എന്നിവയാണ് അതിനാൽ ലളിതമായ ആവശ്യങ്ങൾക്കൊപ്പം ഭൌതികവും കഠിനവുമായ ഇൻഫ്രാസ്ട്രക്ചറുകൾസമാന്തരമായും കൈകോർത്തും എങ്ങനെ കാണപ്പെടുന്നു അതിനാൽ പ്രാരംഭ ഘട്ടത്തിൽ അവർ ഈ വിലയിരുത്തൽ നടത്തുമ്പോൾ സെൻസസ് പറയുന്നത് 6648 വീടുകൾ പുനർനിർമ്മിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യേണ്ടതുണ്ട് കൂടാതെ CGO യിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2972 കാപ്പി വ്യവസായ അടിസ്ഥാന സൌകര്യങ്ങൾ നന്നാക്കേണ്ടതുണ്ട് അതിനാൽ ഒരു പ്രത്യേക കാർഷിക മേഖലയെ കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെറ്റപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ കാർഷിക സെറ്റപ്പുകളുമായി ബന്ധപ്പെട്ട സാങ്കേതികതയുണ്ട് എന്നാൽ അവർക്ക് മതിയായ ആർക്കിടെക്ടുകളോ ബിൽഡർമാരോ ഭവന നിർമ്മാണത്തിൽ പരിചയമുള്ള സിവിൽ എഞ്ചിനീയർമാരോ ഇല്ല ഇത് അവർ പരിശോധിച്ച ഒരു പ്രധാന ആസ്പെക്ട് ആണ് ഈ വിലയിരുത്തലുകളെ തുടർന്നാണ് ഒരു ഫണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് FORECAFE ഫണ്ട് സിജിഒകളുടെ സമ്പാദ്യവും ഫോറെക്കിൽ നിന്ന് കൈമാറ്റം ചെയ്ത വിഭവങ്ങളും സ്റ്റാർബക്സ് കോഫി റെഡ് ക്രോസ്സ് ECHO തുടങ്ങിയ കോഫി ഏജൻസികളുടെ സ്വകാര്യ സംഭാവനകളും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ ഫോണ്ടോ പാരാ ലാ റീകൺസ്ട്രക്ഷൻ ഡെൽ ഏരിയ റൂറൽ കഫെറ്ററ ഇപ്പോൾഈ ഫണ്ടിംഗ് പ്രക്രിയയ്ക്ക് 3 ഘട്ടങ്ങളാണ് ഉള്ളത് ഒന്ന് ഫോർകഫേ 1 ആണ് ആദ്യ ഘട്ടത്തിൽ ഭവന ആവശ്യങ്ങൾ കാപ്പി വ്യവസായത്തിനുള്ള ഉൽപാദന അടിസ്ഥാന സൌകര്യങ്ങൾ പൊതു സേവനങ്ങൾ സഹായ പദ്ധതികൾ സാമൂഹിക വികസനം എന്നിവ നിറവേറ്റി എന്നാൽ പിന്നീട് വീണ്ടുംഭവന പുനർനിർമ്മാണത്തിനും സ്ഥലംമാറ്റത്തിനുമായി നിയുക്തമാക്കിയ സ്ഥലത്ത് കുറച്ചുകൂടി ഫണ്ട് ചേർത്തു കൂടാതെ അവസാനത്തെ FORECAFE മൂന്നാം ഘട്ടംസ്കൂളുകൾ റോഡുകൾ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായി നിയുക്തമാക്കിയതാണ് കൂടാതെ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ പള്ളികൾ തുടങ്ങിയ മതപരമായ അടിസ്ഥാന സൌകര്യങ്ങൾസോഷ്യൽ ആക്റ്റീവിറ്റി സെന്ററുകൾ എന്നിവയും ഇതിൽ പെടുന്നു FORECAFE 1 2 3 ഒരുമിച്ചു കൂടിയാൽ ഏകദേശം 66 കോടി രൂപ ഉണ്ടാവും ഒന്നാമതായി അവർ ആഗ്രഹിക്കുന്ന നിർമ്മാണത്തെക്കുറിച്ച് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുക ഇപ്പോൾ ഈ ഡീസെൻട്രലൈസേഷൻ എങ്ങനെ വിശദീകരിച്ചുഎങ്ങനെ നടപ്പിലാക്കി ഇപ്പോൾ ഭൂരിഭാഗം കേസുകളിലും കർഷകരുടെ കമ്മ്യൂണിറ്റി ആയതിനാൽഈ വ്യക്തിഗത കാർഷിക പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും ഈ കുടുംബങ്ങളിൽ ഭൂരിഭാഗവും സ്വന്തമായി ഭൂമി കൈവശം വച്ചിരിക്കുന്നതിനാൽ കുറഞ്ഞത് അവർക്ക് സ്വന്തം ഭൂമിയിൽ പണിയാനുള്ള ശേഷി ഉണ്ടായിരിക്കുംഅവർക്ക് താഴെ പറയുന്ന കാരണങ്ങൾക്കായി സെൽഫ് ഹെല്പ് കൺസ്ട്രക്ഷൻ വികസിപ്പിക്കുകയും ചെയ്യാം ഒന്ന് കർഷകർക്ക് നിർമ്മാണത്തിൽ വൈദഗ്ധ്യവും അറിവും ഉണ്ട് അവരുടെ കൂട്ടുകുടുംബങ്ങൾ പലരെയും ഓരോ വാസസ്ഥലത്തും ജോലി ചെയ്യാൻ അനുവദിക്കുന്നു കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു കുടുംബ ബിസിനസാണ് അവരുടെ പതിവ് വിളവെടുപ്പ് സീസൺ ഏകദേശം 5 മാസങ്ങൾ ആണ് ദുരന്തത്തിന് ശേഷം പ്രവർത്തനങ്ങൾക്ക് ഒഴിവുസമയമുള്ള കർഷകർ വ്യക്തിഗതമായി ജോലി ചെയ്യുകയും സ്വന്തം ബിസിനസ്സ് നടത്തുകയും ചെയ്യുന്നു ഇത് അവരുടെ സമയം കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകുന്നു അതിനാൽ നിങ്ങൾ തമിഴ്നാട്ടിലെ മത്സ്യബന്ധന മേഖലയെ താരതമ്യം ചെയ്താൽ അത് വളരെ വ്യത്യാസ്തമായ സെറ്റപ്പ് ആണ് മുളയുൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ ആ പ്രദേശത്ത് പ്രാദേശികമായി ലഭ്യമായിരുന്നു കുറഞ്ഞത് ചില പ്രായമായ ആളുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വയം നിർമ്മിച്ച സ്വയം സഹായ നിർമ്മാണം നടത്താൻ കഴിയും അപ്പോഴും തൊഴിലാളികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും അവർക്ക് താങ്ങാനാവുന്ന വിലയായിരുന്നുകൂടാതെ ഗ്രാമീണ സമൂഹങ്ങൾക്ക് പരസ്പര സഹകരണത്തിന്റെ ആഴത്തിൽ വേരൂന്നിയ ബോധം ഉണ്ടായിരുന്നു ഒരു നഗര സെറ്റപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമീണ സമൂഹം പരസ്പരം സഹകരിക്കുന്നു അങ്ങനെ പ്രക്രിയ എങ്ങനെയാണ്ഹൌസിംഗ് പുനർനിർമ്മാണത്തിൽ ഫോറെക്കഫെ ഫണ്ട് 1 2 FORECAFE fund 12വിന്റെ പ്രക്രിയ ആദ്യംസൊസൈറ്റി അഥവാ വ്യക്തികൾ ഭവന ആവശ്യങ്ങളും സാമ്പത്തിക ആവശ്യങ്ങളും മനസ്സിലാക്കിയാൽ അവർ യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യകതകൾ ഒരു കടലാസിൽ ഡ്രാഫ്റ്റ് ചെയ്യും സാങ്കേതിക വൈദഗ്ധ്യത്തിൽ അവരെ സഹായിക്കുന്നതിനായി ഏകദേശം 17 എഞ്ചിനീയർമാരോ engineers സ്പെഷ്യലിസ്റ്റുകളോ ജോലി ചെയ്യുന്നു എന്തൊക്കെ മാർഗത്തിൽ ആണ് അവർ സഹായിച്ചത് യൂണിറ്റുകളുടെ ഹസാർഡ് റെസിസ്റ്റന്റ് ക്വാളിറ്റി യുടെ അംഗീകാരം അങ്ങനെ അത് 2 കിടപ്പുമുറിയും ഒരു അടുക്കളയും 1 ചെറിയ ടോയ്ലറ്റും ആകാം പാരിസ്ഥിതികവും പാരിസ്ഥിതികവുമായ മാനദണ്ഡങ്ങളോടെയുള്ള നിർമ്മാണത്തിന്റെ അനുരൂപതയുടെ അംഗീകാരം പ്രതിമാസ നിർമ്മാണത്തിനുള്ള അംഗീകാരം പേയ്മെന്റുകൾ ഇങ്ങനെ പലതരത്തിൽ ഉള്ള സബ്സിഡി പ്രക്രിയകൾ ശരിയായി ഉദാഹരണത്തിന് നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് വായ്പ ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് വീണ്ടും നിങ്ങളുടെ നിർമ്മാണത്തിന്റെ 25 പൂർത്തിയാക്കേണ്ടതുണ്ട് തുടർന്ന് അടുത്ത പേയ്മെന്റ് കിട്ടും തുടർന്ന് നിങ്ങൾ അത് പിന്തുടർന്നാൽ ഇതുപോലെ പേയ്മെന്റ് പ്രക്രിയയും കാണാം അതിനാൽ ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം അടിസ്ഥാന സൌകര്യങ്ങൾ സാങ്കേതിക പിന്തുണ എന്നിവ ലഭിക്കും അവരുടെ വ്യവസായത്തിനും പ്രോജക്റ്റ് പ്രോത്സാഹിപ്പിക്കുന്ന വിവരത്തിനും സാങ്കേതിക സഹായത്തിനും ഈ 3 ഓപ്ഷനുകൾക്ക് അവർക്ക് കുറച്ച് പിന്തുണ ലഭിക്കുന്നു ഒന്ന് വ്യക്തിഗത ഓപ്ഷൻ രണ്ടാമത്തേത് മറ്റ് എൻജിഒകളുടെ പ്രോഗ്രാമുകളിൽ നിന്നുള്ള വീടുകൾ കാപ്പി കർഷകരുടെ സംഘടനകൾ പ്രമോട്ട് ചെയ്യുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൌസുകളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അറ്റകുറ്റപ്പണി നടത്തിയ വീടുകളുടെ ചില ഉദാഹരണങ്ങളാണ് അതിനാൽ ഇവിടെ അവർക്ക് കുറച്ച് വായ്പകളും സബ്സിഡിയുംവാങ്ങാൻ കഴിയും അവരുടെ ആവശ്യങ്ങളും പുനർനിമ്മാണത്തിൽ പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റിയും റിസോഴ്സസിന്റെ ലഭ്യതയും അനുസരിച്ചു അവർക്ക് വേണ്ട വീട് നിർമ്മിക്കുക അതേസമയം ഇത് വീണ്ടും കാപ്പിക്കുരു സംസ്ക്കരിക്കുന്നതിനുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഘടനയാണ് ഇത് ഒരു ചെറുകിട വ്യവസായത്തിന് ആവശ്യമാണ്കൂടാതെ പ്രീഫാബ് ഹൌസിംഗിന്റെ വ്യത്യസ്ത ടോപ്പോളജികൾ പ്രദർശിപ്പിക്കാൻ അവർ തങ്ങളുടെ കമ്പനികളെ ക്ഷണിക്കാനുള്ള പ്രൊപോസലുകളും ഉണ്ട് ഇവിടെ 50 പ്രൊപ്പോസലുകളിൽ 17 പ്രീഫാബ് കമ്പനികളും ഇനിപ്പറയുന്ന മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുത്തു ഒന്ന് സിസ്റ്റത്തിന്റെ ഗുണനിലവാരം വില പ്രൊഡക്ഷന്റെ കപ്പാസിറ്റി സാമൂഹിക സാംസ്കാരിക പ്രവേശനക്ഷമത സാങ്കേതികവിദ്യയുടെ സ്വീകാര്യത തൊഴിൽ ശക്തിയുടെ ഉപയോഗത്തിനുള്ള സാധ്യത അതിനാൽ അവർ പരിശോധിച്ച മാനദണ്ഡങ്ങൾ ഇവയാണ് കൂടാതെ 17 കമ്പനികൾ യോഗ്യത നേടി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു വീട് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കമ്മ്യൂണിറ്റികൾക്ക് ആൾടെർനേറ്റീവ് നൽകുന്നതിനായി പ്രീ ഫാബ്രിക്കേറ്റഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പ്രദർശനം CGO കൾ സഹകരിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് അവർക്ക് മെറ്റീരിയലുകൾ വാങ്ങിക്കാനുള്ള പ്രചോദനം നൽകുകയും ചില ഐഡിയകൾ നൽകുകയും ചെയ്തു കൂടാതെ ചില സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ ഉണ്ടായി ചില കുടുംബങ്ങൾക്ക് അവരുടെ വീടിന്റെ ഒരു ഭാഗം പുനർനിർമ്മിക്കാനും അവരുടെ സേവന ഘടകത്തിനായി സെപ്റ്റിക് ടാങ്ക് പുനർനിർമ്മിക്കാനും കഴിഞ്ഞു കൂടാതെ അവിടെ ചില പ്രക്രിയകളും ഉണ്ട് ഒന്ന് സബ്സിഡികൾ എങ്ങനെ പിന്തുണയ്ക്കുന്നു 3 ഘട്ടങ്ങളിൽ ആയി ഒന്ന് അടിയന്തര ഘട്ടമാണ് അവർക്ക് ഏകദേശം 25000 ഭക്ഷണ സാധനങ്ങൾ നൽകി 700 ടെന്റുകൾ നൽകി ഇവയാണ് പദ്ധതിയുടെ ഫലങ്ങൾ താൽക്കാലിക പാർപ്പിടത്തിന് ആവശ്യമായ പ്ലാസ്റ്റിക്കുകളുടെ വിതരണവും ഇൻസ്റ്റല്ലേഷനും ഉണ്ട് സ്ഥിരമായ ഘട്ടത്തിൽ ഏകദേശം 9800 വീടുകൾ പുനർനിർമിച്ചു കാപ്പി കർഷകർക്ക് അഥവാ കാപ്പിത്തൊഴിലാളികൾക്ക് ഉള്ള 6648 വീടുകൾ കാപ്പിക്കുരു ഫിൽട്ടറിംഗ് പ്രക്രിയകൾ പോലെയുള്ള ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട 4700 ഘടനകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യാവസായിക ആവശ്യങ്ങൾക്കോ പാക്കേജിംഗ് ആവശ്യങ്ങൾക്കോ ഉള്ളത് മലിനജലം വെള്ളം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളുടെ 2131 വ്യക്തിഗത പ്രോജക്ടുകൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോർകഫേ 3 ബജറ്റിൽ അവർ സ്കൂളുകളിലും പോലീസ് സ്റ്റേഷനുകൾ പള്ളികൾ തുടങ്ങിയ അത്യാവശ്യ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൂടാതെ പ്രീഫാബ് മോഡുലാർഘടകങ്ങൾ ഉപയോഗിക്കുന്നു ഇത് കൂടാതെ ഏകദേശം 10000 നേരിട്ടുള്ള സോഫ്റ്റ് ഔട്ട്പുട്ടുകളും ഉണ്ട് കൂടാതെ പ്രദർശനത്തിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്ത താമസക്കാർക്കും നിർമ്മാണ കമ്പനികൾക്കും പരോക്ഷമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു വിവരങ്ങളും വിദ്യാഭ്യാസവും ലഭിച്ചു ഇവയെല്ലാം പദ്ധതി ഫലങ്ങളുടെ ഭാഗമാണ് അവർ ഉത്തരവാദിത്തവും അപകടസാധ്യതകളും പങ്കിട്ടു നിർമ്മാണ വൈദഗ്ദ്ധ്യമുള്ള താമസക്കാർ സ്വയം സഹായ നിർമ്മാണം ഉപയോഗിച്ചു ഉദാഹരണത്തിന് കർഷകരായ ആളുകൾക്ക് വന്ന് പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കാൻ കഴിയും പക്ഷേ അവിടെ പ്രായമായ ആൾക്കാർ ഉണ്ടാവും അതിനാൽ അവർക്ക് കുറച്ച് തൊഴിലാളികളെ നിയമിക്കേണ്ടി വരും താമസക്കാർ അവരുടെ പഴയ വീടുകളിൽ നിന്ന് വാതിലുകളും ജനലുകളും പോലുള്ള റിസോഴ്സസ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് ഒപ്ടിമൈസ് ചെയ്തു മറ്റു മെറ്റീരിയലുകൾ പുനരുപയോഗം ചെയ്തു കൊണ്ട് ചെലവ് കുറയ്ക്കാനും സമാനമായ തുണിത്തരങ്ങൾ തിരികെ ലഭിക്കാനും കഴിയും കൂടാതെ എഞ്ചിനീയർമാർ അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും വിലയിരുത്തുന്നതിനാൽ എല്ലാ നിർമ്മാണങ്ങളും ഭൂകമ്പപരമായി മികച്ചതായിരുന്നു അതേസമയം വ്യക്തിഗത ആവശ്യങ്ങൾ അഭിരുചികൾ മുൻഗണനകൾ എന്നിവ പരിഗണിക്കുകയും ചെയ്യുന്നു സബ്സിഡികൾ അധിക സ്രോതസ്സുകളായി ലഭിക്കുന്നത് ഗുണഭോക്താക്കളെ ഒരു പ്രധാന സംഭാവന നൽകാൻ പ്രേരിപ്പിച്ചു കൂടാതെ വിഭവങ്ങളുടെ പരിമിതികളെക്കുറിച്ച് ബോധവാന്മാരായി താമസക്കാർ അവരുടെ പ്രോജക്റ്റുകൾ ഫ്ലെക്സിബിൾ സ്പേസുകൾ സൃഷ്ടിച്ചു കൊണ്ടും വിവിധ ഉപയോഗങ്ങൾ കൊണ്ട് പ്രതികരിച്ചു കൊണ്ടും ഒപ്റ്റിമൈസ് ചെയ്യുന്നുതൽഫലമായി താമസക്കാർ ഒരു സാങ്കേതികവിദ്യയോ ഭവന മാതൃകയോ പരിഗണിക്കാതെ വൈവിധ്യം ചിത്രത്തിലേക്ക് വരുന്നു തീർച്ചയായും ഏതൊരു പ്രോജക്റ്റിനും എല്ലായ്പ്പോഴും ചില വീഴ്ചകൾ ഉണ്ടാവും ഈ സെഗ്മെന്റിൽ ഈ മുഴുവൻ പ്രോജക്റ്റിലും ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കാപ്പി കർഷക സംഘടനയായതിനാൽ ഇൻഫോർമൽ നിവാസികളുടെ കവറേജ് കാരണം ഇൻഫോർമൽ സെക്ടർ കൊളംബിയയിൽ വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ് ഇത് നഗരപ്രദേശങ്ങളിൽ അഭിസംബോധന ചെയ്യുന്നില്ലതീരുമാനങ്ങൾ എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റഡ് അല്ല അതിനാൽ എന്താണ് സംഭവിക്കുന്നത്തുടർച്ച ഇല്ലാതാവുകയും അറിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈ ഫോർകഫെ പ്രൊജക്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അടച്ചു തുടർന്ന് അത് എല്ലാ ഫയലുകളും പൂർണ്ണമായും അടച്ചു അതിനാൽ ഈ പ്രക്രിയയിൽ അവർ നേടിയ പഠനം എന്താണെന്നും അത് ഭാവിയിലെ പുനർനിർമ്മാണ പദ്ധതികളിലേക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഉള്ള അറിവ് കൈമാറ്റം ചെയ്യപ്പെട്ടില്ല അതിനാൽ അറിവിന്റെ തുടർച്ചയും നഷ്ടപ്പെട്ടു കാരണം പരിപാലനത്തിന്റെ കാര്യത്തിൽ മറ്റേതെങ്കിലും ആരോപണങ്ങളുടെ കാര്യത്തിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ അതൊക്കെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനാൽ അവിടെയാണ് കണ്ടിനുവിറ്റി ആസ്പെക്ട് continuപരിശോധിക്കേണ്ടത് താഴേത്തട്ടിലുള്ള സമീപനം എങ്ങനെയെന്നതിന്റെ മികച്ച ഉദാഹരണം ഇത് നിങ്ങൾക്ക് നൽകുമെന്ന് ഞാൻ കരുതുന്നു കൂടാതെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വൈവിധ്യമാർന്ന കാര്യങ്ങൾ നൽകുകയും ഡീസെൻട്രലൈസ്ഡ് സമീപനം കാപ്പി കർഷകരെ എങ്ങനെ സഹായിക്കുമെന്നും അവരുടെആവശ്യങ്ങളും മറ്റും നിറവേറ്റാനും സർക്കാരും മറ്റ് സ്വകാര്യ മേഖലകളും ചില ഫണ്ട് പിന്തുണയും നൽകിയിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം മുഴുവൻ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും നോക്കുന്നതിന് കൺട്രോളിംഗ് അതോറിറ്റിയിലെ ഫണ്ട് മാനേജരായി അസോസിയേഷൻ മാറുന്നു കൂടാതെ ഇവിടെയാണ് സാങ്കേതിക ഇൻപുട്ടുകൾ പോലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുനർനിർമ്മാണ പ്രക്രിയയിലൂടെ കഠിനവും ലളിതവുമായ ഇൻപുട്ടുകളും നൽകിയിട്ടുണ്ട് ഇത് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി